സുപ്രഭാതം സുഹൃത്തുക്കളേ സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള ഓൺലൈൻ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം നിലവിൽ നമ്മൾ അഡ്വാൻസ്ഡ് സ്പീക്കിംഗ് സ്കിൽസ് വിഭാഗത്തിലാണെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു വാക്കാലുള്ള അവതരണ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നതിന്റെ വിവിധ സൂക്ഷ്മതകൾ നമ്മൾ ഇതിനകം ചർച്ചചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് മുൻ പ്രഭാഷണം ആസൂത്രണത്തെയും തയ്യാറെടുപ്പിനെയും കുറിച്ച് സംസാരിച്ചു നിങ്ങൾ എല്ലാവരും ഓർക്കുന്നതുപോലെ നമ്മൾ ഉദ്ദേശ്യത്തെക്കുറിച്ച് സംസാരിച്ചു നമ്മൾ തയ്യാറെടുപ്പിനെക്കുറിച്ചും സംസാരിച്ചു വാക്കാലുള്ള അവതരണമോ പ്രസംഗമോ ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ 2 പ്രധാന ചേരുവകൾ സ്പർശിക്കാൻ പോകുന്നു അവയിലൊന്ന് പരിശീലനവും ഒടുവിൽ പ്രകടനവുമാണ് ഇപ്പോൾ ഒരു വാമൊഴി അവതരണം എങ്ങനെ തയ്യാറാക്കാമെന്ന് മനസിലാക്കുകയും വിവിധ ഘടകങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെ പരിശീലിക്കണം എന്ന് ചർച്ച ചെയ്യേണ്ട സമയമാണ് കാരണം അന്തിമ അവതരണം നൽകുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നേടുന്നതിന് വളരെയധികം ആവശ്യമാണ് ആത്മവിശ്വാസം ഒരു ദിവസത്തിനുള്ളിൽ നേടാൻ കഴിയില്ല ഇത് വളരെയധികം സമയമെടുക്കുന്നു പക്ഷേ അവതരണം എങ്ങനെ ഡ്രാഫ്റ്റുചെയ്യാമെന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പരിശീലനം നടത്തണമെന്ന് അറിയണം പ്രാക്ടീസ് ചെയ്യുന്ന കല നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ അവസാന കാര്യം വരുന്നത് അവതരണം നൽകുകയോ അവതരണം നടത്തുകയോ ചെയ്യുക എന്നതാണ് അവതരണത്തിന്റെ നൽകുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവതരണം എങ്ങനെ ഫലപ്രദമാക്കാം തയ്യാറെടുപ്പിൽ ചില ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ചചെയ്തപ്പോൾ നിങ്ങൾ അവതരണം എഴുതുമ്പോഴും ആ ഘട്ടങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ എല്ലാം ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ അവതരണം ഫലപ്രദമാക്കാൻ കഴിയുന്നത് എന്താണെന്ന് മനസിലാക്കാൻ ഞങ്ങളെ അനുവദിക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഫലപ്രദമെന്ന് പറയുന്നത് എല്ലാ അവതരണവും ഫലപ്രദമാകില്ല നിങ്ങളുടെ അവതരണം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും തുടർന്ന് അവതരണം ഫലപ്രദമല്ലെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊന്ന് അതിനാൽ ഞങ്ങളുടെ അവതരണം ഫലപ്രദമാക്കാൻ കഴിയുന്ന വിവിധ ഘടകങ്ങൾ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ആദ്യത്തേത് നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അവതരണത്തിന്റെ വിഭജനത്തെക്കുറിച്ച് സംസാരിച്ചത് ഒരു അവതരണം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അവതരണം എങ്ങനെ വിഭജിക്കാമെന്നും നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു നിങ്ങൾക്ക് വിവരമുണ്ട് പക്ഷേ നിങ്ങൾ അവ വിഭജിക്കും അവ വിഭജിക്കുമ്പോൾ പ്രസക്തമായ വിവരങ്ങൾ എവിടെ വയ്ക്കണമെന്നും ഏത് വിഭാഗത്തിലാണെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം അതിനാൽ ഫലപ്രദമായ അവതരണത്തിലെ ആദ്യത്തെ പ്രധാന ചുമതല വളരെ ഫലപ്രദമായ ഒരു തുടക്കമാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അവതരണം എങ്ങനെ ആരംഭിക്കാം എന്നതാണ് ചോദ്യം അവതരണം ആരംഭിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒരു അവതാരകൻ തന്റെ അവതരണം വളരെ പെട്ടെന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമല്ല അതിനാൽ നിങ്ങളുടെ അവതരണം ഫലപ്രദമാക്കുന്നതിന് നിങ്ങളുടെ തുടക്കം വളരെ ഫലപ്രദമാക്കുകയും വളരെ ആകർഷകമാക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യത്തെ പ്രധാന കാര്യം അത് എങ്ങനെ ചെയ്യാം നിങ്ങൾ ഏത് വിഷയത്തിലായാലും സംസാരിക്കുന്നുവെന്ന് കരുതുക എന്നാൽ നിങ്ങൾ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ദൌത്യം ശ്രോതാവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നതാണ് നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉപയോഗിച്ച് ആരംഭിക്കാം നിങ്ങൾക്ക് ഒരു കഥയോ എപ്പിസോഡോ ഉപയോഗിച്ച് ആരംഭിക്കാം അമ്പരപ്പിക്കുന്ന ചില വസ്തുതകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരംഭിക്കാനും കഴിയും ഉദാഹരണത്തിന് ആത്മവിശ്വാസത്തെക്കുറിച്ചോ പരിഭ്രാന്തിയെക്കുറിച്ചോ ഒരു അവതരണം നൽകേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പുതിയവരോ പരിചയസമ്പന്നരോ ആകട്ടെ നമുക്കെല്ലാവർക്കും വളരെ സാധാരണമായ ഒരു കാര്യമുണ്ട് അപ്പോഴാണ് ഒരു അവതരണം നൽകേണ്ടിവരുമ്പോൾ നാമെല്ലാവരും ഒരു വിചിത്രമായ ഭയം കാണുന്നത് ഈ വിചിത്രമായ ഭയത്തെ പരിഭ്രാന്തി എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അവതരണത്തിന് അത്തരമൊരു തുടക്കം നൽകുമ്പോൾ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുകയില്ല പക്ഷേ അവർക്ക് അതിൽ താൽപ്പര്യമുണ്ടാകും അതിനാൽ തുടക്കം വളരെ പ്രധാനമാണ് തുടക്കത്തിലെ നിരവധി സൂക്ഷ്മതകളുണ്ട് അവ ഒരു എഴുത്ത് രസകരമോ ഫലപ്രദമോ ആക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു നല്ല അവതരണമോ നല്ല പ്രസംഗമോ നിങ്ങൾക്കറിയാമെന്നതിനാൽ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്നു പ്രേക്ഷകരുടെ താൽപ്പര്യം നിലനിർത്തേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇത് തുടക്കം മാത്രമല്ല തുടക്കത്തിനുശേഷം നിങ്ങളുടെ ശബ്ദമാണ് വളരെ പ്രധാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോൺവെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഇതിനകം ശബ്ദത്തെയും അതിന്റെ വിവിധ സൂക്ഷ്മതകളെയും കുറിച്ച് സംസാരിച്ചു പക്ഷേ ഫലപ്രദമായ അവതരണത്തിന് ഒരു നല്ല ശബ്ദവും പ്രധാനമാണെന്ന് ഇവിടെ പരാമർശിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ എന്താണ് നല്ല ശബ്ദം ഇത് വളരെ ഉച്ചത്തിലുള്ള ശബ്ദമാണോ അതോ വളരെ മൃദുവായ ഒന്നാണോ നല്ല ശബ്ദം എന്നാൽ വ്യക്തമായ ശബ്ദമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനർത്ഥം ഒരുതരം വ്യക്തത ഉണ്ടായിരിക്കണം എന്നാണ് ശബ്ദം വ്യക്തമല്ലാത്ത നമ്മളിൽ പലരും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും വ്യക്തത എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഈ വ്യക്തത വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു തുടക്കക്കാർ എന്ന നിലയിൽ നിങ്ങളുടെ ടാസ്ക് എത്രയും വേഗം പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാലാണ് നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കുന്നതിൽ വളരെ വേഗതയുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയില്ല കാരണം രണ്ട് വാക്കുകളിലും അവശേഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വാക്കുകൾ ഉണ്ട് നിങ്ങൾ ഓടുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചാടുകയാണെന്നോ തോന്നുന്നു അതിനാൽ ഒരു നല്ല ശബ്ദം വളരെ പ്രധാനമാണ് ഒരു നല്ല ശബ്ദത്തിന് ഒരുതരം വ്യക്തത ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല നിരവധി ആളുകൾ അവരുടെ ശബ്ദത്തിന്റെ ഗുണനിലവാരത്തിനും പേരുകേട്ടവരാണ് എന്നാൽ നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല കാരണം അതിന് ഒരു ദിവ്യഗുണം ലഭിക്കുകയും അത് ദൈവം സമ്മാനിക്കുകയും ചെയ്യുന്നു എന്നാൽ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും നിങ്ങൾക്ക് വളരെ താഴ്ന്ന ശബ്ദമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വ്യക്തമാക്കാം കാരണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഒരു ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരെ മനസ്സിലാക്കുക എന്നതാണ് അതിനാൽ ആർക്കെങ്കിലും വളരെ ശബ്ദമുണ്ടായതായി കരുതുക പക്ഷേ അയാൾ കഠിനമായി ശ്രമിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാൻ കഴിയും അവന് സംസാരിക്കാൻ കഴിയും പകരം വാക്കുകൾ വ്യക്തമായി പറയാൻ കഴിയും അതിനായി അവൻ അൽപ്പം മന്ദഗതിയിലായിരിക്കണം അവൻ വേഗത്തിലാണെങ്കിൽ സ്വാഭാവികമായും അവന്റെ വാക്കുകളിൽ പകുതിയും നഷ്ടപ്പെടും എന്നിട്ട് അനൌപചാരിക വശം വരുന്നു നമ്മൾ ഇവിടെ അൺവെർബലിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ശരീരഭാഷയിലാണ് അതിനാൽ അവതരണത്തിൽ ശരീരഭാഷയും പ്രധാനമാണ് അതെ ശരീരഭാഷ എന്നാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു പ്രഭാഷകനെന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നു ഞാൻ നിങ്ങളെ നോക്കുന്നില്ല സുഖമില്ലെന്ന് കരുതുക എനിക്ക് നിങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന ധാരണയും നിങ്ങൾക്കുണ്ടാകാം കാരണം ഒരു നല്ല പ്രഭാഷകൻ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനാണ് കാരണം നിങ്ങൾക്ക് ഒരുതരം ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകരുമായി ഒരുതരം വിശ്വാസ്യത സ്ഥാപിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ പ്രേക്ഷകരോട് ചങ്ങാതിമാരായി പെരുമാറണം ശത്രുക്കളായിട്ടല്ല അതിനാൽ അതിനായി നിങ്ങൾ ആളുകളെ നോക്കേണ്ടതുണ്ട് നിങ്ങൾ ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു ഒപ്പം പ്രേക്ഷകരുമായുള്ള നിങ്ങളുടെ ബന്ധവും ശക്തിപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ വീണ്ടും മറ്റൊരു ചോദ്യം ചോദിച്ചേക്കാം ചെറുപ്പക്കാർ ചോദിച്ചേക്കാം ആൾക്കൂട്ടത്തെ എനിക്ക് എങ്ങനെ തുടർച്ചയായി കാണാൻ കഴിയും അല്ലെങ്കിൽ തുടർച്ചയായി ഒരു വിഭാഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല മറിച്ച് നിങ്ങൾക്ക് ഉടനീളം ഐ കോൺടാക്ട് പുലർത്തണം ഈ ഐ കോൺടാക്ട് നിങ്ങളുടെ പ്രേക്ഷകരെ നിയന്ത്രിക്കാൻ സഹായിക്കും പലർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് പുതിയവർക്ക് വ്യത്യസ്ത ചോദ്യങ്ങളുള്ളതിനാൽ ആളുകളെ നോക്കാൻ കഴിയില്ല പ്രേക്ഷകരിലെ ചില അംഗങ്ങൾ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ ശരീരഭാഷ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ആൾക്കൂട്ടത്തിനുമുന്നിൽ ഉറച്ചുനിൽക്കാൻ കഴിയുന്നു നിങ്ങൾ പ്രഭാഷണം നടത്തുമ്പോഴോ പ്രസംഗം നടത്തുമ്പോഴോ പോലും നിങ്ങൾക്ക് ഈ ഇടം ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും എനിക്ക് നിങ്ങളോട് എന്റെ ഇടം ഉണ്ടെന്നും ഞാൻ എത്രത്തോളം നീങ്ങണം എന്നതിനെക്കുറിച്ചും എനിക്ക് തീരുമാനിക്കാം പക്ഷേ വീണ്ടും ഞാൻ വളരെ വേഗത്തിൽ നീങ്ങുകയോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ നീങ്ങുകയോ ചെയ്താൽ അത് ഇഷ്ടപ്പെടില്ല നിങ്ങൾ അതുകൊണ്ടാണ് വാക്കാലുള്ള അവതരണത്തിലോ പ്രസംഗത്തിലോ ശരീരഭാഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ശരീരഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നേത്ര സമ്പർക്കം മാത്രമല്ല ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളും പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരു പ്രഭാഷകൻ കൈകളുടെ സഹായത്തോടെ കൈകാലുകളുടെ സഹായത്തോടെ സ്വന്തം ഭാഷയെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു ആശയവിനിമയം നടത്തുന്നതിലും അവതരണം വിജയകരമാക്കുന്നതിലും ആത്മവിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം അതിനാൽ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ശരീരവുമായി യാന്ത്രികമായി പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ നൽകുന്ന ഭാഷയോ സന്ദേശമോ അതിനാൽ അത് വളരെ പ്രധാനമാണ് അടുത്തത് നർമ്മമാണ് വാക്കാലുള്ള അവതരണത്തിൽ നർമ്മത്തിന് എങ്ങനെ ഒരു പ്രധാന പങ്കുണ്ടെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർക്കുക വാക്കാലുള്ള അവതരണങ്ങൾ ഒരു വിഷയത്തിൽ പ്രത്യേകം നൽകിയിരിക്കുന്നു അത് വളരെ സാങ്കേതിക സ്വഭാവമുള്ളതും ചില സമയങ്ങളിൽ വളരെ സങ്കീർണ്ണവുമാകാം ഉദാഹരണത്തിന് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നുള്ള ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ മനോഹരമായ പല്ലുകളെക്കുറിച്ചോ പല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പറയാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ല കാരണം അദ്ദേഹം വളരെ സാങ്കേതികമായ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം മെഡിക്കൽ പദങ്ങൾ ഉപയോഗിക്കുമ്പോഴോ എല്ലാ വിഷയങ്ങളും അൽപ്പം അമൂർത്തവും പ്രയാസകരവുമാകാം അതിനാൽ അവിടെ അദ്ദേഹത്തിന് നർമ്മം ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദന്തരോഗവിദഗ്ദ്ധനെ സന്ദർശിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പതിവായി അദ്ദേഹത്തെ സന്ദർശിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കുക ഇപ്പോൾ ഇത് ഒരു വസ്തുതയാണ് എന്നാൽ അതേ സമയം ഞങ്ങളുടെ ആന്തരിക പ്രസംഗത്തിന്റെ അവതരണത്തോടെ നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജിജ്ഞാസയുടെ നിലവാരത്തെ മാത്രമല്ല അത് നിങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പെടുന്നു നർമ്മത്തിന് പുറമെ നിങ്ങൾ ചില ഉദാഹരണങ്ങളും നൽകണം നിങ്ങൾ ചില ഉദാഹരണങ്ങൾ നൽകണം ഈ ഉദാഹരണങ്ങൾ വളരെ പരിചിതമായിരിക്കണം നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് സ്പോർട്സിൽ നിന്നോ സംഗീതത്തിൽ നിന്നോ സിനിമകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉദാഹരണങ്ങൾ നൽകാം എന്നാൽ നിങ്ങൾ യോഗയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ യോഗയെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുന്നുവെന്ന് കരുതുക സ്വാഭാവികമായും ഇത് എല്ലാവർക്കും പ്രയോജനകരമാണ് അവിടെ നിങ്ങൾ ഉദാഹരണത്തിന്റെ ഒരു മിശ്രിതം കൊണ്ടുവരണം അതിനാൽ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു നമ്മൾ പറഞ്ഞതുപോലെ ആരംഭം വളരെ പ്രധാനമാണ് എന്നാൽ അതേ സമയം നിങ്ങൾ നിർത്തുന്നതിനു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ നിർത്തുന്നതിനുമുന്പ് നിങ്ങൾ കുറച്ച് സൈൻപോസ്റ്റ് നൽകണം നിങ്ങൾ അത് ചെയ്യും പക്ഷേ അവതരണത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ നിർത്തുന്നതിനു പോകുമ്പോൾ അത് വളരെ ദൃമായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ അവതരണത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ നിങ്ങൾ അത്തരമൊരു രീതിയിൽ അവതരിപ്പിക്കണം അവസാനം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്തും ഒരു പുന ate സ്ഥാപനമായി കാണപ്പെടും അല്ലെങ്കിൽ അത് നിങ്ങളുടേതാണെന്ന ധാരണ അവർക്ക് നൽകണം നിങ്ങളുടെ പോയിന്റ് നന്നായി ഓടിക്കാൻ കഴിഞ്ഞു അതിനാൽ ഫലപ്രദമായ അവതരണത്തിന്റെ സവിശേഷതകൾ ഇവയാണ് അവതരണരീതികളെക്കുറിച്ചും അവതരണ ക്രമങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വളരെ രസകരമായി തോന്നിയ ആദ്യ കാര്യം മനപാഠമാക്കിയ ഒരു അവതരണമായിരുന്നു പക്ഷേ നിങ്ങളുടെ അവതരണം മനപാഠമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അവതരണം ഫലപ്രദമാക്കുവാൻ ആരംഭത്തെയും അവസാനത്തെയും കുറിച്ച് സംസാരിക്കുക കാരണം അഭിനന്ദനം അർഹിക്കുന്ന മനോഹരമായ ഒരു ഉദ്ധരണിയിൽ ആരംഭിക്കുന്ന ഒരു തുടക്കം അതിനാൽ അവതരണത്തിന്റെ തുടക്കവും അവസാനവും ഓർക്കുക തുടക്കത്തിലെ വരികൾ മനോഹരമായി സംയോജിപ്പിക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്റെ ഒരു സുഹൃത്തിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു അവതരണം നൽകേണ്ടതായിരുന്നു ഒരു ഉദ്ധരണി ഉപയോഗിച്ച് ആരംഭിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു പക്ഷേ അവതരണം നൽകാൻ തുടങ്ങിയപ്പോൾ ഉദ്ധരണിയുടെ പകുതി മാത്രമേ നൽകാൻ കഴിയൂ ബാക്കി പകുതി അദ്ദേഹം മറന്നു ഇപ്പോൾ ഇത് നിങ്ങളെ വളരെ നാണക്കേടിലാക്കുന്നു അതുകൊണ്ടാണ് അവതരണം പരിശീലിപ്പിക്കുന്നതിന് ഞാൻ വളരെയധികം ഊന്നൽ നൽകുന്നത് അതിനാൽ നിങ്ങളുടെ അവതരണം പരിശീലിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉദ്ധരണി നൽകുകയാണെങ്കിൽ മനപാഠമാക്കുന്നത് ദയവായി കാണുക അതിനാൽ ഉദ്ധരണി പൂർണ്ണമായി ഓർമ്മിക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾ ഒരു ഉദ്ധരണി ഇടുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന വ്യക്തിയുടെ പേരും അറിയണം അതിനാൽ ഇവ റിഹേഴ്സലിനിടെ മാത്രമേ ചെയ്യാൻ കഴിയൂ നിങ്ങളുടെ അവതരണം പരിശീലിക്കുക നിങ്ങളുടെ അവതരണം പരിശീലിക്കുക നിങ്ങൾ നിങ്ങളുടെ അവതരണം എഴുതിയതിൽ സംശയമില്ല പക്ഷേ ആ അവതരണം റിഹേഴ്സൽ ചെയ്യേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ അവതരണം റിഹേഴ്സൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബാധ്യതയുണ്ട് അവതരണത്തിന്റെ ഓരോ ഭാഗവും നിങ്ങൾക്ക് മനപാഠമാക്കാൻ കഴിഞ്ഞേക്കില്ലെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തതയോടെ സംസാരിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ അവതരണത്തിന്റെ അന്തിമ രൂപരേഖ നൽകാനും നിങ്ങൾക്ക് കഴിയും കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു അവതരണം നൽകുമ്പോൾ ഒരു സ്പീക്കർ വായിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇത് തീർച്ചയായും ആളുകൾക്ക് പിപിടി അവതരണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുഗമാണ് പക്ഷേ പിപിടി അവതരണങ്ങളിൽ പോലും എന്തിനാണ് എന്നതിനെക്കുറിച്ച് വളരെയധികം അറിഞ്ഞിരിക്കേണ്ടത് കാരണം ചില സമയങ്ങളിൽ ഈ പിപിടി അവതരണം വളരെ വിരസവും മോശവുമാണ് പല പ്രഭാഷകർക്കും പവർപോയിന്റ് സ്ലൈഡുകളുമായി ഒരു സമന്വയം സൃഷ്ടിക്കാൻ കഴിയാത്തതിനാൽ ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും ആളുകൾ സ്ലൈഡുകളിൽ നിന്ന് ലളിതമായി വായിക്കുന്നുണ്ടെന്നും നിങ്ങൾ കണ്ടേക്കാം ഇപ്പോൾ സ്ലൈഡുകളിൽ നിന്ന് വായിക്കുന്നതും കൈയെഴുത്തുപ്രതിയിൽ നിന്നുള്ള വായനയും ഒന്നുതന്നെയാണ് അതിനാൽ നിങ്ങൾ പവർപോയിന്റ് അല്ലെങ്കിൽ പിപിടിയുടെ സഹായത്തോടെ ഒരു വാമൊഴി അവതരണം നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതിനാൽ നിങ്ങൾ പരിശീലിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കും നിങ്ങൾക്കും നിയന്ത്രണം നേടാനാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനാൽ ഒരു ഔട്ട്ലൈനിൽ പ്രവർത്തിക്കാൻ പിപിറ്റിക്കു കഴിയും നിരവധി ആളുകൾക്ക് അവരുടെ സ്ലൈഡുകളിൽ എന്താണ് എഴുതേണ്ടതെന്ന് പോലും വ്യക്തമല്ല നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ എല്ലാം എഴുതാൻ കഴിയില്ല അല്ലെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്വന്തം റോൾ എന്താണ് അതിനാൽ നിങ്ങൾ അവശ്യ പോയിന്റുകളായ പോയിന്റുകൾ എഴുതണം നിങ്ങൾ പോയിന്റുകൾ എഴുതുമ്പോഴും ഈ സ്ലൈഡുകളിൽ എല്ലാം എഴുതിക്കൊണ്ട് നിങ്ങൾ എല്ലാം അലങ്കോലപ്പെടുത്താൻ പോകുന്നില്ലെന്നത് ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആനിമേഷൻ പ്രവർത്തിക്കുന്ന ഒരു യുഗത്തിലാണ് ധാരാളം ആളുകൾ അതിൽ എല്ലാ സംഗീതവും കൊണ്ടുവരുന്നു പക്ഷേ ചിന്തയുടെ യഥാർത്ഥ സംഗീതം അവിടെ ഇല്ല അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്ലൈഡിലും നിങ്ങൾക്ക് പരിമിതമായ എണ്ണം പോയിന്റുകൾ ആവശ്യമാണ് എല്ലാം എഴുതിക്കൊണ്ട് നിങ്ങൾ ഇത് പരസ്പരം ബന്ധിപ്പിക്കാൻ പോകുന്നു എന്നല്ല നിങ്ങളുടെ അവതരണം ഫലപ്രദമാക്കുന്നതിന് ഒരു വ്യക്തി വീണ്ടും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ക്ഷീണമുണ്ടെന്നും അക്ഷമയാണെന്നും തോന്നുന്നു അതിനാലാണ് നിങ്ങൾക്ക് സമയം നൽകിയിരിക്കുന്നത് അതിനാൽ സമയത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുക സമയത്തിന്റെ ട്രാക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവതരണം എഴുതുമ്പോൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ സമയം ദയവായി കൂടുതൽ മെറ്റീരിയലുകൾ തയ്യാറാക്കുക എന്നാൽ നിങ്ങൾ ഇത് പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ക്ലോക്കിന്റെയോ വാച്ചിന്റെയോ സഹായത്തോടെ ഇത് പരിശീലിക്കണം നിങ്ങൾക്ക് എത്ര സമയം സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണണം ഇത് വളരെയധികം ആണെങ്കിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫോണുകളുടെ സൌകര്യമുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അവതരണം റെക്കോർഡുചെയ്യാനും നിങ്ങൾക്കത് കാണാനും കഴിയും അത് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകും ഒരു വ്യക്തി സ്വയം വിശകലനം ചെയ്യുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എവിടെയാണ് തെറ്റെന്നും എവിടെ മെച്ചപ്പെടുത്തലുകൾ അനിവാര്യമാണെന്നും കണ്ടെത്തുന്നു അതിനാൽ നിങ്ങൾ അവതരണം നൽകുന്ന സമയത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അവതരണം റെക്കോർഡു ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡു ചെയ്യാനും പിന്നീട് കാണാനുമുള്ള സൌകര്യം നിങ്ങൾക്കുണ്ട് അതിനാൽ നിങ്ങളുടെ ശരീരഭാഷ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനും കഴിയും നിങ്ങൾ ഐ കോൺടാക്ട് നിലനിർത്തുമ്പോൾ നിങ്ങൾ കാണികളുടെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം നോക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരേയും നോക്കുകയാണോ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ അതിനാൽ അത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ സ്വന്തം അവതരണം അവലോകനം ചെയ്യുമ്പോഴോ സ്വയം വിശകലനം നടത്തുമ്പോഴോ നിങ്ങളുടെ അവതരണം രസകരമാണോ അല്ലയോ എന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ അവതരണം പരിശീലിപ്പിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും പറയുന്നത് വരെ ആർക്കും മനസിലാക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവതരണം കേൾക്കാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ സ്വന്തം ശബ്ദം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സ്വന്തം വിമർശകനാകുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം അവതരണത്തെ ഒരു നിർണായക വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല ചില ചെറിയ അവതരണങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നൽകുകയും സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകാൻ അവരോട് പറയുകയും ചെയ്യും കാരണം ഇത് നിങ്ങളെ സഹായിക്കും ഇപ്പോൾ ഡെലിവറി ഭാഗം വരുന്നു അവസാനമായി അവതരണം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ നിങ്ങളുടെ ശബ്ദത്തിന് ആവിഷ്കാരത്തിന്റെ ഗുണമുണ്ടോ ആവിഷ്കാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ശബ്ദം മാത്രമല്ല എന്നാൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്തും അത് വ്യക്തമായി വരുന്നുണ്ടോ എന്നത് നിങ്ങളുടെ ശബ്ദത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും പ്രകടിപ്പിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമാണ് ഞങ്ങളുടെ ശരീരം ഇക്കാര്യത്തിൽ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കും അത് ഇവിടെ ഉദ്ധരിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നു കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയുമുള്ളവർക്ക് ഒരു മനുഷ്യനും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും അവന്റെ അധരങ്ങൾ നിശബ്ദമാണെങ്കിൽ അവൻ വിരൽത്തുമ്പിൽ ചാറ്റ് ചെയ്യുന്നു വിശ്വാസവഞ്ചന റഫർ സമയം 2350 ഓരോ ധ്രുവത്തിലും അവനിൽ നിന്ന് ഒഴുകുന്നു അർത്ഥം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു പ്രഭാഷകനെന്ന നിലയിൽ നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ സംസാരിക്കുന്നു നിങ്ങളുടെ ശരീരം സംസാരിക്കാത്ത നിമിഷങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആളുകളിൽ ഉടനീളം നിശബ്ദനായിരിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അറിയുന്നത് നിങ്ങളുടെ ശരീരം സൂചനകൾ നൽകുന്നു അതിന് ധാരാളം സൂചകങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ ഡെലിവറിയുടെ ഫലപ്രാപ്തിയും നിങ്ങളുടെ അവതരണം പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക ശബ്ദത്തിന്റെ കാര്യത്തിലും ഒരു പദത്തിന്റെ വിഭജനത്തിന്റെ കാര്യത്തിലും അക്ഷരങ്ങളെ അക്ഷരങ്ങളായി വാക്കുകളായി വിഭജിക്കുന്നതിലും അവയ്ക്ക് അനുസൃതമായി മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകൾ വെട്ടിമാറ്റി നിങ്ങളുടെ പ്രേക്ഷക അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ വീണ്ടും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വവും കണക്കിലെടുക്കണം നിരക്ക് എന്തായിരിക്കണം മിനിറ്റിൽ എത്ര വാക്കുകൾ ഇപ്പോൾ ആളുകൾക്കിടയിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ വളരെ വേഗത്തിൽ സംസാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ നിങ്ങൾ വീണ്ടും വളരെ വേഗതയുള്ളവരാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആശയങ്ങൾ കുറവായിരിക്കുന്നതിനുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകും ഞാൻ വളരെ മന്ദഗതിയിലാണെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് പല പ്രഭാഷകരും പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ പ്രേക്ഷക അംഗങ്ങൾക്ക് ഒരുതരം നേട്ടമാണെന്ന് ഓർമ്മിക്കുക കാരണം നിങ്ങൾ മിതമായ നിരക്കിൽ ആയിരിക്കുമ്പോൾ മിനിറ്റിൽ 120 മുതൽ 130 വരെ വാക്കുകൾ സംസാരിക്കുന്നു നിങ്ങളുടെ പ്രേക്ഷക അംഗങ്ങളേ മിനിറ്റിൽ 180 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ മികച്ചതായി അവർ കാണുന്നു മറ്റൊന്ന് വോളിയം നിങ്ങൾക്ക് കേൾക്കാനാകുമോ നിങ്ങളുടെ അവതരണം പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാമെന്നും ഞാൻ അർത്ഥമാക്കുന്നു അതുകൊണ്ടാണ് വിദഗ്ദ്ധരായ പ്രഭാഷകർ പലപ്പോഴും പറയുന്നത് എനിക്ക് കേൾക്കാനാകുമോ എന്ന് ആൾക്കൂട്ടവും ഹാളിലോ നിങ്ങൾ സംസാരിക്കുന്ന മുറിയിലോ ഉള്ള ശബ്ദ സൌകര്യവും കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രണം മോഡുലേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ആൾക്കൂട്ടത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങളുടെ വോളിയം ക്രമീകരിക്കുക നിങ്ങളുടെ പ്രേക്ഷക അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയണമെന്ന് ഇപ്പോൾ വീണ്ടും ചോദിക്കാം ഇവിടെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് ഒരു നല്ല നിരീക്ഷകനാകും എന്റെ പ്രിയ സുഹൃത്ത് നിങ്ങളുടെ പ്രേക്ഷകരെ നിങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അവർക്ക് മനസിലാക്കാൻ കഴിയുന്നില്ലെങ്കിലോ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് കണ്ടെത്താനാകും എന്നാൽ അത് ആദ്യ ഘട്ടത്തിൽ വരാൻ കഴിയാത്ത ഒരേയൊരു അനുഭവവുമായി വരും അതിനാൽ ശരിയായ അളവിലുള്ള വോളിയവും നിങ്ങളുടെ പിച്ച് ചലനങ്ങളും നടത്തുക ഇപ്പോൾ പിച്ച് ചലനങ്ങളിലൂടെ ഞാൻ പറയുന്നു കുറച്ച് വേഗതയുണ്ട് കുറച്ച് ശബ്ദമുണ്ടാകും നിങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ട സാഹചര്യങ്ങളുണ്ട് അത് നമ്മൾ താഴേക്കിറക്കേണ്ട സമയങ്ങളുണ്ട് എല്ലാ വാക്യങ്ങളും ഒരേ വ്യാപ്തിയോടെ സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ വികാരങ്ങൾ ഇടുന്നു നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ചില അർത്ഥമുണ്ട് കാരണം അർത്ഥം വാക്കുകളിൽ മാത്രമല്ല സ്പീക്കറിലും ഉണ്ട് നിങ്ങളുടെ സംഭാഷണത്തിനോ അവതരണത്തിനോ വേണ്ടി നിങ്ങൾക്ക് നല്ല വാക്കുകൾ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾ വളരെ നല്ല തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതിനാൽ നിങ്ങൾ അത് എങ്ങനെ എറിയുന്നു എന്നത് വളരെ പ്രധാനമാണ് മാത്രമല്ല കഴിയുന്നത്ര വ്യക്തമായി പറയാൻ പരമാവധി ശ്രമിക്കുക ഇതുകൂടാതെ ഒരു കാര്യം കൂടി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രൂപം അവതരണത്തിനായി നിങ്ങൾ പോകുമ്പോൾ ഭൂരിഭാഗവും നിങ്ങൾക്ക് ശരിയായ രൂപമുണ്ടോയെന്ന് പരിശോധിക്കണം കാഴ്ച പ്രകാരം നിങ്ങളുടെ മുഖം ഒരുപക്ഷേ നല്ല മുഖം മോശം മുഖം വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ രൂപം ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രധാരണം അലങ്കാരം റഫർ സമയം 2856 നിങ്ങൾ അർത്ഥം കൊണ്ടുവന്ന അതുവഴി നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കണം നിങ്ങളുടെ രൂപഭാവത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു പചാരികത ശരിയായ ഹെയർകട്ട് ശരിയായ മുഖഭാവം ശരിയായ വസ്ത്രധാരണം ശരിയായ ചലന രീതികൾ എന്നിവ നിങ്ങളുടെ രൂപത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കമ്മലുകൾ സെല്ലുകൾ എന്നിവ പോലുള്ളവ വഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണെന്നും മാത്രമല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തവയെക്കുറിച്ച് ഒരു സ്പീക്കർ എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കേണ്ട ചില രീതികളുണ്ട് അതിനാൽ നല്ല ഭാവം പുലർത്തുക നിങ്ങൾ ശാരീരികമായി മികച്ച നിലയിലാണോ എന്ന് നിങ്ങൾ കാണുന്നു ശാരീരികമായി മികച്ചതായിരിക്കുന്നതിലൂടെ അതിനർത്ഥം നിങ്ങൾ നന്നായി വസ്ത്രം ധരിച്ചയാളാണെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ പകുതി നിങ്ങളിലേക്ക് വരും അതിനാൽ ആത്മവിശ്വാസം പുലർത്തുക വസ്ത്രധാരണത്തിനു മുമ്പുതന്നെ നിങ്ങൾ അവതരണീയനാണോയെന്ന് സ്വയം നോക്കുക നല്ല രൂപഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നിങ്ങൾ അവതരണീയനായി കാണുകയും ആൾക്കൂട്ടവുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ജനക്കൂട്ടവുമായി ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിബദ്ധതയും ആത്മവിശ്വാസവും നിങ്ങളിൽ നിന്ന് പുറത്തുവരാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും വാമൊഴി അവതരണങ്ങളിൽ കാരണം ഇത് സങ്കീർണ്ണ സ്വഭാവമുള്ളതാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ചില വിഷ്വൽ എയ്ഡുകൾ കൊണ്ടുവരും പക്ഷേ തയ്യാറെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതുപോലെ നിങ്ങൾ എയ്ഡുകൾ സ്ഥാപിച്ചു

നിങ്ങൾ അവതരണം നൽകാൻ പോകുമ്പോൾ നിങ്ങൾ എവിടെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് പോയിന്ററുകൾ ലഭിച്ചു നിങ്ങൾ എല്ലാവരും വാക്കാലുള്ള അവതരണം നൽകുന്നു അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചോ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെ സംയോജിപ്പിക്കണം എന്ന് മനസിലാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ പ്രസക്തമായ പോയിന്റിൽ എത്തുമ്പോൾ എയ്ഡുകളെ സമന്വയിപ്പിക്കുക അത് സാധ്യമാക്കുക നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രേക്ഷക അംഗങ്ങളും അത് നോക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും പക്ഷേ അത് ചെയ്യുന്ന രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അപ്രസക്തമായി തോന്നുന്നില്ല നിങ്ങൾ എയ്ഡുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്തും വ്യാഖ്യാനിക്കുക ചില ആളുകൾ ഓവർഹെഡ് ട്രാൻസ്പെരൻസിസ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന മുൻ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ജനക്കൂട്ടത്തിനിടയിലും അകത്തും നിൽക്കാറുണ്ടായിരുന്നു അത് പരാജയമായിരുന്നു അതിനാൽ നിങ്ങൾ ട്രാൻസ്പെരൻസിസിനും ആളുകൾക്കും ഇടയിലല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രേക്ഷക അംഗങ്ങളാണ് മാത്രമല്ല നിങ്ങളുടെ അവതരണം വളരെ കാര്യക്ഷമതയോടും കരുതലോടും കൂടി തയ്യാറാക്കി നിങ്ങൾ എല്ലാം വാക്കാലുള്ള വെടിക്കെട്ട് പോലെ സംസാരിക്കരുത് ക്രമത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വിരാമചിഹ്നമുണ്ട് എന്നാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റീവ് ഉണ്ട് ഉദാഹരണത്തിന് ഇതിനുശേഷം ഞാൻ കണക്റ്റീവ് ഉപയോഗിക്കുമെന്ന് നിങ്ങൾ കാണുന്നു ഞാൻ എങ്ങനെ ചുമതല എളുപ്പമാക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും

എന്റെ പ്രിയ സുഹൃത്തുക്കളേ കണക്റ്റീവുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കണക്റ്റീവുകൾ പ്രേക്ഷകരോട് നിങ്ങൾ ഒരു ചിന്താ യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നുവെന്ന് പറയുന്നു അവതരണത്തിനിടയിൽ നിങ്ങൾ എവിടെയാണെന്നും ഇത് പറയുന്നു കൂടാതെ ഈ കണക്റ്റീവുകൾ വ്യത്യസ്ത വിഭാഗങ്ങളാണെന്നും അവയിൽ ചിലത് സംക്രമണങ്ങളാണെന്നും മറ്റുള്ളവ ആന്തരിക പ്രിവ്യൂകളാണെന്നും ആന്തരിക സംഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം ചുരുക്കത്തിൽ ചില സമയങ്ങളിൽ സംഖ്യയെ സൂചിപ്പിക്കുന്ന ഈ സൈൻപോസ്റ്റുകൾ ചിലപ്പോൾ നടപടിക്രമം ചിലപ്പോൾ വിഭാഗം ചിലപ്പോൾ വികസനം മറ്റ് സമയങ്ങളിൽ അവർ നിങ്ങളെ അനുവദിക്കുകയും അവർക്ക് നിങ്ങളുടെ അവതരണത്തിന്റെ സ്ഥാനം മനസിലാക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു അതിനാൽ കണക്റ്റീവുകളുടെ ഈ ഉപയോഗവും നിങ്ങൾക്കറിയാവുന്ന ഉപയോഗവും നിങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ ഇത് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡെലിവർ ചെയ്യാനും കഴിയും നല്ല സ്പീക്കറുകൾ ഇത് മനപൂർവ്വം എത്തിക്കുന്നു അതിനാൽ പ്രേക്ഷക അംഗങ്ങൾ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം കാരണം അവതരണമോ പ്രസംഗമോ ദൈർഘ്യമേറിയാൽ പ്രേക്ഷക അംഗങ്ങൾ വീണ്ടും ഒരു പരിവർത്തനത്തിനായി കാത്തിരിക്കുകയോ ഒരു സൈന്പോസ്റ്റിനായി കാത്തിരിക്കുകയോ ചെയ്യുന്നു ഞാൻ അടയ്ക്കുന്നതിന് മുമ്പ് ഈ മാന്യൻ എപ്പോൾ പറയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അവസാനമായി ഇപ്പോൾ ഇവയെല്ലാം എന്താണ് ഇവയെല്ലാം കണക്റ്റീവുകളാണ് എന്റെ പ്രിയ സുഹൃത്തേ ഈ കണക്റ്റീവുകൾ പ്രേക്ഷക അംഗങ്ങളുടെ ചുമതല എളുപ്പമാക്കും കാരണം മുഴുവൻ അവതരണവും കണക്റ്റുചെയ്തിരിക്കുന്നതിനാൽ അവ കണക്റ്റീവുകളുടെ സഹായവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ അവതരണം ഫലപ്രദമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് നുറുങ്ങുകളായി നൽകുന്ന ചില കാര്യങ്ങളും നിങ്ങൾ ഓർക്കണം ഒന്നാമത്തേത് നിങ്ങൾ വളരെ ഫലപ്രദമായ അവതരണം നൽകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീണ്ടും ഞാൻ അത് ആവർത്തിക്കും ഞാൻ ഇന്നലെ പറഞ്ഞത് തയ്യാറെടുപ്പാണ് മികച്ച മറുമരുന്ന്

അതിനാൽ നന്നായി തയ്യാറാക്കുക നിങ്ങളുടെ അവതരണം നന്നായി തയ്യാറാക്കുക പക്ഷേ തയ്യാറെടുപ്പോടെ അത് പരിശീലിക്കുക സെൽഫോണിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ സഹായത്തോടെയോ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് പ്രാക്ടീസുകൾ ആവർത്തിച്ച് സമയം കണ്ടെത്തുന്നു മാത്രമല്ല പ്രേക്ഷക അംഗങ്ങൾ നിങ്ങളെ നോക്കുന്നതിനാൽ ഇപ്പോൾ ഇത് നല്ലതാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രഭാഷകനോട് അഭ്യർത്ഥിക്കാൻ കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും മൈക്രോഫോണിനുമിടയിലുള്ള ദൂരം നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ആളുകൾ മൈക്രോഫോണിനോട് വളരെ അടുത്ത് പോകുന്നത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം പൊട്ടിത്തെറിക്കുന്നതായി തോന്നുന്നു അതിനാൽ നിങ്ങളുടെ ചുണ്ടുകൾക്കും മൈക്രോഫോണിനുമിടയിൽ കുറച്ച് ഇടം ഉണ്ടെങ്കിൽ ശബ്ദങ്ങൾ വളരെ വ്യക്തമായി വരും തീർച്ചയായും ഇപ്പോൾ നമ്മൾക്ക് കോളർ മൈക്കുകളും വ്യത്യസ്ത സകര്യങ്ങളും ലഭ്യമാണ് പക്ഷേ എങ്ങനെയെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ മൈക്രോഫോൺ വളരെ സെൻസിറ്റീവ് ആയതിനാൽ എല്ലാം ഉച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പ്രശസ്തരായ സ്പീക്കറുകൾക്ക് ചില പരിഭ്രാന്തി അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് അവർ ചില സ്ട്രെസ് ബസ്റ്ററുകൾ പരിശീലിക്കണം കൂടാതെ സ്ട്രെസ് ബസ്റ്ററുകളിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് സ്വയം അർത്ഥവത്താക്കാനാകുമെന്നതാണ് അതുവഴി അവർ സ്വയം പറയണം ഞാൻ ശരിക്കും വളരെ പ്രധാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില നല്ല കാര്യങ്ങൾ സ്വയം പറയുക നല്ല കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുക നിങ്ങൾ അവതരണം ആരംഭിക്കാൻ പോകുമ്പോൾ തിരക്കിൽ ആരംഭിക്കരുത് പകരം താൽക്കാലികമായി നിർത്തുക മെമ്മറിയിൽ നിന്നുള്ള ആദ്യ വാചകം സംസാരിക്കുക കണ്ണിന്റെ സമ്പർക്കം നിലനിർത്തുക നിങ്ങളുടെ ശബ്ദത്തിലും പദസമ്പത്തും നിയന്ത്രിക്കുക ചില സമയങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ആൾക്കൂട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പ്രേക്ഷക അംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുക നിങ്ങളുടെ വേഗതയിൽ കുറച്ച് ബ്രേക്കുകൾ ഇടുക തുടർന്ന് പ്രഭാഷണത്തിൽ മാത്രം ഒതുങ്ങുന്നു അതിനാൽ അവരുടെ അസ്വസ്ഥത നിരീക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്നാൽ വിദഗ്ധർ ഫലപ്രദമായ സ്പീക്കറുകളാണ് അതിനാൽ ചലനങ്ങൾ പരിശീലിക്കുക നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ വളരെ സ്വാഭാവികമായി നീങ്ങുന്നുവെന്ന് തോന്നണം അത് അടിച്ചേൽപ്പിച്ച ചലനമല്ല അല്ലെങ്കിൽ അത് കൃത്രിമമല്ല

ചിലപ്പോൾ ഈ പുഞ്ചിരികളും ആൾക്കൂട്ടത്തിന്റെ ചൂളംവിളികളും ഒരുതരം ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെയാകാം പക്ഷേ അവർ അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് അവയെക്കുറിച്ച് മറക്കാൻ കഴിയും മറുവശത്ത് അവർ ഒരുപക്ഷേ നിങ്ങളെ വിലമതിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം ഒടുവിൽ സമയം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷേ അടുത്തുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ മറന്നാലും നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ സംഗ്രഹിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല അവസ്ഥയിലാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഫലപ്രദമായ പ്രഭാഷകനോ ഫലപ്രദമായ അവതാരകനോ ആകുന്നതിന് ദയവായി അവതരണം വായിക്കരുത് ഒന്നുകിൽ നിങ്ങളുടെ കുറിപ്പുകൾ ഉപയോഗിച്ചോ പവർപോയിന്റ് സ്ലൈഡുകൾ ഉപയോഗിച്ചോ അവതരണം മനപാഠമാക്കരുത് കാരണം നിങ്ങൾ മനപാഠമാക്കിയാൽ നിങ്ങൾ മറക്കും ഒരു നീണ്ട ആമുഖം നൽകരുത് നിങ്ങൾ വാക്കുകളുടെ വെടിയുണ്ടകൾ പുറപ്പെടുവിക്കുന്ന പോലെ സംസാരിക്കരുത് കോപിക്കുന്നത് ഒഴിവാക്കുക ആരെങ്കിലും നിങ്ങളെ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് പ്രതികരിക്കണം നിങ്ങൾ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നല്ല നിങ്ങൾ മറ്റേതെങ്കിലും മാധ്യമം ഉപയോഗിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ബ്ലാക്ക്ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലാക്ക്ബോർഡ് മാത്രം ഉപയോഗിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ പരിമിതപ്പെടുത്തരുത് പകരം എഴുതുകയും സംസാരിക്കുകയും ചെയ്യുക അവരുടെ പുഞ്ചിരി അവഗണിക്കുക സഹതപിക്കുക നിങ്ങൾ അവസാനിക്കുന്നതിനുമുമ്പ് അവർക്ക് ഒരു സിഗ്നൽ നൽകുക അതിനാൽ ഫലപ്രദമായ അവതരണത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു എന്റെ ശ്രോതാക്കൾ മികച്ച മാനസികാവസ്ഥയിലാണെന്ന ധാരണയോടെ സംതൃപ്തി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവതരണം നൽകാൻ അവർ തയ്യാറാണ് അതിനാൽ ഇത് അവസാനിപ്പിക്കട്ടെ എന്നാൽ അവസാനിക്കുന്നതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ നുറുങ്ങുകളും നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കാരണം നിങ്ങൾ വീണ്ടും നിൽക്കുമ്പോൾ ഒരു കാൽ മറ്റൊന്നിനേക്കാൾ മുന്നിൽ നിൽക്കണം പരിശീലന സെഷനുകളിൽ നിങ്ങൾ പരിശീലനത്തിന് പോകുകയാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ പ്രത്യക്ഷപ്പെടാൻ നിങ്ങളുടെ കണ്ണാടി ഉപയോഗിക്കുക നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഉത്സാഹത്തോടെ നടക്കുക നിങ്ങളുടെ അവതരണം അവസാനിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹാൻഡ് ഔട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവ നൽകുക ദയവായി അവിടെ നിൽക്കൂ കാരണം ചില ചോദ്യങ്ങളുണ്ടാകാം മാത്രമല്ല ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നാൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പരിഭ്രാന്തരാകരുത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവരോട് പറയാൻ കഴിയും ഈ ചോദ്യം അവസാനം ഒരു സംഗ്രഹത്തോടും അഭിനന്ദനത്തോടും കൂടി ചർച്ചചെയ്യാം അതിനാൽ ഒരു മികച്ച മനുഷ്യൻ തന്റെ സംസാരത്തിൽ എളിമയുള്ളവനാണെങ്കിലും അവന്റെ പ്രവർത്തനത്തിൽ മെച്ചപ്പെടുന്നു എന്ന് പറയുന്ന കൺഫ്യൂഷ്യസിനെ ഉദ്ധരിച്ച് എന്റെ അവതരണം അവസാനിപ്പിക്കാം നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ എല്ലാവരും എളിമയുള്ളവരാകട്ടെ എന്നാൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരുടെയും സംതൃപ്തി നൽകുക അവതരണത്തിനായി നിങ്ങൾ തയ്യാറാക്കിയത് ഒരു നല്ല ഫലം നൽകി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു സമയം ചെലവഴിക്കുന്നതിലൂടെ പ്രേക്ഷക അംഗങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും വളരെ നന്ദി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസംഗങ്ങളെക്കുറിച്ച് സംസാരിക്കും എങ്ങനെയാണ് വിവിധ അവസരങ്ങളിൽ നിങ്ങൾ വ്യത്യസ്ത പ്രസംഗങ്ങൾ നടത്തേണ്ടത് അതുവരെ വളരെ നന്ദി ഒരു നല്ല ദിനം ആശംസിക്കുന്നു